കഴിഞ്ഞ പ്രഭാഷണത്തിൽ ബ്ലോക്സ് വെക്കുന്നതിനുള്ള സിമുലേറ്റഡ് അനീലിങ് ടെക്നിക് ആണ് ചർച്ച ചെയ്തത് അത് ഗ്ലാസ്സിന്റെയോ മെറ്റലുകളുടെയോ അനീലിങ് രീതിയിൽ നിന്നും ക്രിസ്റ്റലിസിങ് പോലുള്ള ചില സാദൃശ്യങ്ങൾ സ്വീകരിക്കുന്ന സാങ്കേതികത ആയിരുന്നു ഇനി ഈ പ്രഭാഷണത്തിൽ നമ്മൾ പ്ലേസ്മെന്റിനു മറ്റൊരു രീതി നോക്കും എന്നാൽ അത് ഫിസിക്സിലെ സ്പ്രിങ്സിന്റെ സവിശേഷതകൾ ഇലാസ്റ്റിസിറ്റി തുടങ്ങിയവയോടൊക്കെ സാദൃശ്യം പുലർത്തുന്ന രീതി ആണ് നിങ്ങൾ കേട്ടിട്ടുള്ള ചില നിയമങ്ങളിൽ ഒന്നാണ് ഹൂക്സ് ലോHooke's law അതിനാൽ അത് അടിസ്ഥാനപരമായി സ്പ്രിങ്സിന്റെ ചില സവിശേഷതകളെയും സന്തുലനാവസ്ഥയെയും ആധാരമാക്കി ഉള്ളതാണ് ഈ രീതിയെ പറയുന്നത് ഫോഴ്സ് ഡിറക്ടഡ് പ്ലേസ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ രീതി പ്ലെയ്സ്മെന്റ് പ്രശ്നവും മെക്കാനിക്സിന്റെ വളരെ ക്ലാസിക്കൽ പ്രശ്നവുംഅതായത് സ്പ്രിങ്സുമായി ബന്ധിച്ചിരിക്കുന്ന ഒരു കൂട്ടം ഭാഗങ്ങളുടെ സംവിധാനം തമ്മിലുള്ള സാമ്യതയെ പര്യവേക്ഷണം ചെയ്യുന്നു ഒരു ഉദാഹരണം വഴി ചിത്രീകരിക്കാം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാദൃശ്യം സ്പ്രിങ്ങുകളുമായി ബന്ധിപ്പിച്ചിരിയ്ക്കുന്ന ഒരു കൂട്ടം ഭാഗങ്ങൾ ആണ് കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വരാം ഇത് പ്ലേസ്മെന്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു സാമ്യമാണ് ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ബ്ലോക്കുകൾ ഒരു നെറ്റ് ഉപയോഗിച്ചു കണക്ട് ചെയ്തിരിക്കുന്നു ബ്ലോക്കുകൾ പരസ്പരം ആകർഷണീയമായ ശക്തി പ്രയോഗിക്കുന്നു ഫോഴ്സിന്റെ മാഗ്നിറ്റിയൂഡ് ബ്ലോക്സ് തമ്മിലുള്ള ദൂരവുമായി നേർ അനുപാതത്തിൽ ആണ് ഇത് മെക്കാനിക്സിലെ ഹൂക്സ് ലോ യോട് സാദൃശ്യമാണ് നമുക്ക് ഇത് ആദ്യം വിശദീകരിക്കാൻ ശ്രമിക്കാം അതിനാൽ ഹൂക്കിന്റെ നിയമത്തോടെ ആരംഭിക്കാം അപ്പോൾ ഹൂക്കിന്റെ നിയമം എന്താണ് ഹുക്കിന്റെ നിയമം ഒരു സ്പ്രിങ്ങിന്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു സ്പ്രിങ് നീട്ടുന്നതോ ചുരുങ്ങുന്നതോ ഒരു ശരീരത്തിലോ പിണ്ഡത്തിലോ എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് രണ്ട് പിണ്ഡങ്ങളുണ്ടെന്ന് കരുതുക നമുക്ക് അവയെ m1 m2 എന്ന് വിളിക്കാം അത് ഒരു സ്പ്രിങുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ദൂരം d ആണെന്ന് പറയട്ടെ അതിനാൽ ഒരു സ്പ്രിങ്ങ് m2 ഈ ദിശയിലേക്ക് നീട്ടിയിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഇവിടെയെത്തും അല്ലെങ്കിൽ ഞാൻ ഈ ദിശയിലേക്ക് തള്ളിയിട്ടു റിലീസ് ചെയ്താൽ അത് വീണ്ടും യഥാർത്ഥ സ്ഥാനത്ത് വരും അതിനാൽ ഞാൻ ഒരു സ്പ്രിങ് വലിക്കുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുമ്പോഴോ അത് മറ്റൊരു ദിശയിലേക്ക് തിരിയുന്നു അതിനാൽ സ്പ്രിങ്ങിൽ പ്രയോഗിക്കുന്ന ശക്തി സ്പ്രിങ്ങിന്റെ രണ്ട് അറ്റങ്ങൾ ഈ m1 m2 എന്നിവയെ വേർതിരിക്കുന്ന ദൂരത്തിന് നേർ ആനുപാതികമാണ് അതിനാൽ F നെ ഒരു കോൺസ്റ്റന്റ് k ഇന്റു d എന്ന് എഴുതാം k എന്നത് സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ് ഇത് സ്പ്രിങ്ങിന്റെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു സ്പ്രിങ് വളരെ കരുത്തുള്ളതാണെങ്കിൽ k വളരെ വലുതായിരിക്കും എന്നാൽ സ്പ്രിങ് ദുർബലമാണെങ്കിൽ കെ ചെറുതായിരിക്കും അതിനാൽ F D എന്നിവ തമ്മിലുള്ള ഈ ആനുപാതികത സ്പ്രിംഗ് മെറ്റീരിയലിനെ അതിന്റെ ഇലാസ്തികതയുടെ പരിധിക്കുള്ളിൽ നിലനിർത്തും അതായത് നമ്മൾ സ്പ്രിങ്ങിനെ ഒരു പരിധിക്കപ്പുറം വലിച്ചു നീട്ടുകയാണെങ്കിൽ അതിനു സ്ഥിരമായ കേടുപാടുകൾ ഉണ്ടാകാം ചിലപ്പോൾ സ്ഥിരമായ രൂപഭേദം സംഭവിക്കാം ഇത് ഞങ്ങൾ പറയുന്നത് ഇലാസ്തികതയുടെ പരിധിക്കപ്പുറമാണ് അതായത് m2 റിലീസ് ചെയ്താൽ തിരിച്ച് യഥാർത്ഥ സ്ഥാനത്തേക്ക് വരില്ല ചില ഭാഗങ്ങൾക്ക് സ്ഥിരമായ കേടുപാട് സംഭവിച്ചിരിക്കാം അതിനാലാണ് F d എന്നിവ തമ്മിലുള്ള അനുപാതികത ഇലാസ്തികതയുടെ പരിധിക്കുള്ളിൽ മാത്രമേ നിലനിൽക്കൂ എന്ന് പറയുന്നത് ഇത് സ്പ്രിങ്സിന്റെ കാര്യമാണ് ഇനി നമുക്ക് ബ്ലോക്കുകളുടെ പ്ലേസ്മെന്റ് നെ പറ്റി നോക്കാം B1 B2 B3 എന്നീ ബ്ലോക്കുകൾ നമുക്കു ഉണ്ടെന്നു കരുതാം B1 B2 എന്നിവക്കിടയിൽ 5 കണക്ഷൻ വയറുകളും നെറ്റുകളും ഉണ്ടെന്ന് കരുതുക B2 B3 എന്നിവക്കിടയിൽ 2 നെറ്റുകൾ B1 B3 എന്നിവക്കിടയിൽ 3 നെറ്റുകൾ ഇനി സാദൃശ്യം വരയ്ക്കാം നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നത് നിങ്ങൾക് പ്ലേസ്മെന്റ് പ്രശ്നത്തിൽ കാണാൻ കഴിയും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബ്ലോക്കുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തു വയ്ക്കാൻ ശ്രമിക്കും എന്നാൽ അവർ അത്ര അടുത്തു അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ചെറുതായി ശ്രമിച്ചേക്കാം അത് സാരമില്ല അതിനാൽ ഞാൻ പറയുന്നത് ഈ പ്രശ്നം എനിക്ക് B1 B2 B3 എന്നീ മൂന്ന് ബോഡികളായി തുല്യമായി മോഡുലേറ്റ് ചെയ്യാൻ കഴിയും അവ മൂന്ന് സ്പ്രിങ്ങുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അവയുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റുകൾ കെ എന്നത് 5 2 3 എന്നത് ആണ് കാരണം സ്പ്രിങ് കോൺസ്റ്റന്റ് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള സ്പ്രിങ് ആണ് ഏറ്റവും ശക്തമായത് അത് ബി 1 ബി 2 എന്നിവയെ കൂടുതൽ അടുപ്പിക്കും അതിനാൽ നിങ്ങൾ ഈ ഭാഗങ്ങളുടെ കൂടാതെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചാൽ അവർ ഒരു സന്തുലിതാവസ്ഥയിൽ സെറ്റിൽ ആകും അവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും മറ്റു സ്പ്രിങ്ങുകളും കണക്ട് ചെയ്തിട്ടുണ്ടാകാം ഞാൻ ഇവിടെ 3 എണ്ണമേ കാണിക്കുന്നുള്ളു കാരണം 3 ആണെങ്കിൽ അവർ എല്ലാരും കൂടി സന്തുലിതാവസ്ഥയിൽ ആയിരിക്കും എന്നാൽ മറ്റു ദിശകളിലേക്ക് വലിക്കുന്ന മറ്റു ബലങ്ങളും ഉണ്ടാകാം അതിനാൽ സാദൃശ്യം ഇങ്ങനെ ആണ് നമുക്ക് ഒരു സ്പ്രിങ് ഉണ്ട് ഇന്റർ കണക്ഷൻ ലൈനുകൾ ഉണ്ട് ഇപ്പോൾ സാമ്യം ഫോഴ്സ് ദൂരത്തിനു ആനുപാതികമാണ് എന്നതാണ് അത് ഇവിടേം അങ്ങനെ തന്നെ B1 B2 എന്നിവ തമ്മിലുള്ള ദൂരം എടുക്കാം B1 B2 തമ്മിലുള്ള ആകർഷക ബലം അവർ തമ്മിലുള്ള ലൈനുകൾക് തുല്യമായിരിക്കും അത് ഹൂക്കിന്റെ നിയമം പോലെ k യും ദൂരവും തമ്മിൽ ഗുണിക്കുന്നതിനു തുല്യമായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള സമാനതയോ സാമ്യതയോ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയും ഈ തത്ത്വം ഉപയോഗിക്കുകയും ഞങ്ങൾ മൊഡ്യൂളുകൾ സ്ഥാപിക്കുന്നതിന് ഈ പ്രത്യേക രീതി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് സ്ലൈഡിലേക്ക് വരാം അതിനാൽ നമ്മൾ ചർച്ച ചെയ്തത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്ലോക്കുകൾ സ്പ്രിങ്ങുകളുമായിട്ട് കണക്ട് ചെയുമ്പോഴുള്ളത് പോലെ ഉള്ള ഒരു ആകർഷക ബലം പ്രയോഗിക്കും അതിന്റെ മാഗ്നിറ്റിയൂഡ് ദൂരത്തിനു തുല്യമായിരിക്കും ഇതും നമ്മൾ പറഞ്ഞതാണ് അവരെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചാൽ അവസാന കോൺഫിഗുറേഷൻ എന്നത് സന്തുലനാവസ്ഥ കിട്ടുന്നത് ആയിരിക്കും അതിനാൽ സന്തുലനാവസ്ഥ എത്തുക എന്നത് ഒരു ഉദാഹരണം വച്ച നോക്കാം B1 B2 B3 എന്നീ 3 ബ്ലോക്കുകൾ ഉണ്ടെന്നു കരുതാം ഇവർ 3 പേരും ഫ്ലോർ പ്ലാനിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്ലോക്കുകളെ പ്രതിനിധീകരിക്കുന്നു ഒരു കസ്റ്റമ് ഡിസൈൻ നോക്കാം B1 ഇവിടെ വച്ചിരിക്കുന്നു B3 ഇവിടെ B2 ഇവിടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നാലാമത്തെ ബ്ലോക്ക് ബി 4 ആണ് അത് ശരിയാക്കാൻ ഒരു നല്ല സ്ഥലം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഈ ബി 4 ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ബോഡി ബി 4 ആണ് ഞാൻ ഇത് ഒരു ദീർഘചതുരത്തിൽ കാണിക്കുന്നു ഇത് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ഈ മൂന്ന് ബ്ലോക്കുകളായ ബി 1 ബി 2 ബി 3 എന്നിവയുമായി സ്പ്രിങ്ങുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അവരുടെ കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് k1 k2 k3 ഇനി എന്താണെന്ന് വച്ചാൽ ഈ ഒരു അവസ്ഥയിൽ B4 റിലീസ് ചെയ്യാം അത് ചുറ്റിത്തിരിഞ്ഞു ഒരു സന്തുലിതാവസ്ഥയിൽ എത്തും ഇതാണ് B4 ന്റെ സ്ഥാനം എന്ന് അനുമാനിക്കാം അതായത് B4 റിലീസ് ചെയ്താൽ ഇതായിരിക്കും അവസാന സ്ഥാനം അതിനാൽ ബി 1 ഇത് ബന്ധിപ്പിക്കും ഇത് ഇതുമായി ബന്ധിപ്പിക്കും അതിനാൽ അവസാന സ്ഥാനത്ത് B4 ബ്ലോക്കിൽ പ്രയോഗിക്കുന്ന മൊത്തം ശക്തി 0 ന് തുല്യമായിരിക്കും ഇതാണ് സന്തുലിതാവസ്ഥയുടെ നിർവചനം അതിനാൽ നിങ്ങൾക്ക് ഈ സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് ബി 4 സ്ഥാപിക്കാനുള്ള മികച്ച സ്ഥാനം ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറയാം ഫോഴ്സ് ഡയറക്ട് പ്ലേസ്മെന്റ് പിന്നിലെ അടിസ്ഥാന ആശയമാണിത് അതിനാൽ പൊതുവേ നിങ്ങൾ ഇത് വീണ്ടും നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള രണ്ട് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പൊതുവെ B1 B4 എന്നിവ അതിനാൽ നിങ്ങൾക്ക് ഇന്റർ കണക്ഷനുകൾ ഉണ്ട് ഭാരം w14 എന്ന് കരുതുക അതിനാൽ ഇതിനെ ബന്ധിപ്പിക്കുന്ന എത്ര ലൈനുകൾ ഈ ബ്ലോക്കുകൾ തമ്മിലുള്ള ദൂരം d14 എന്ന് പറയട്ടെ അതിനാൽ ഈ രണ്ട് ബ്ലോക്കുകളായ B1 B4 എന്നിവയ്ക്കിടയിലുള്ള ആകർഷണ ശക്തി w14 d14 കൊണ്ട് ഗുണിക്കും കൃത്യമായി ഹൂക്കിന്റെ നിയമം പോലെ അത് ദൂരത്തിന് ആനുപാതികമായിരിക്കും w14 അത് സ്ഥിരമായിരിക്കും അതിനാൽ മറ്റ് നിരവധി സെല്ലുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സെൽ ഒരു ശക്തി അനുഭവിക്കും ആദ്യം ഇത് ഒരു ലളിതമായ സാഹചര്യം വച്ച നോക്കാം അതാകും എളുപ്പം ഇതുപോലൊരു സാഹചര്യം ഉണ്ടെന്നു കരുതുക എനിക്ക് i എന്ന ഒരു ബ്ലോക്ക് വെക്കണം 1 2 3 4 എന്നീ ബ്ലോക്കുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഓരോ ബ്ലോക്കും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട് അതായത് 1 അതിലേക്ക് i യെ ആകർഷിക്കുന്നു 2 അതിലേക്ക് i യെ ആകർഷിക്കുന്നു3 അതിലേക്ക് i യെ ആകർഷിക്കുന്നു4 അതിലേക്ക് i യെ ആകർഷിക്കുന്നു ഇനി ഇത് wi1 wi 2 wi3 wi4 എന്നീ ഭാരങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ബ്ലോക്കിലേക്കുള്ള മൊത്തം ബലം Fi എന്നത് wi1 di1 എന്നിവയുടെ ഗുണന ഫലം ആയിരിക്കും di1 എന്നത് ദൂരം ഇതാണ് di1 അതുപോലെ ഇത് di2 ആയിരിക്കും ഇത് di3 ആയിരിക്കും ഇത് di4 ആയിരിക്കും അതിനാൽ i ൽ പ്രയോഗിക്കുന്ന മൊത്തം ശക്തി wi2 di2 wi3 di3 wi4 di4 എന്നിവയുടെ തുക ആയിരിക്കും ഇനി എന്താണ് ചെയ്യണ്ടത് എന്ന് വച്ചാൽ കുറച്ച സമവാക്യങ്ങൾ പരിഹരിക്കുകയുംഫോഴ്സ് 0 ആയിട്ടുള്ള i യുടെ സ്ഥാനം കണ്ടുപിടിക്കുകയും വേണം കാരണം ചിലത് വലതു വശത്തേക്ക് വലിക്കും ചിലത് ഇടത്തേക്കും അതിനാൽ അതിൽ ചിഹ്നങ്ങൾ കാണും മൊത്തം തുക x ദിശയിലും y ദിശയിലും 0 ആയിരിക്കണം അതിനാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായി ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നു ഇവിടെ ഒരു സെല്ലിനെ മറ്റു j സെല്ലുകൾ ആകർഷിക്കുന്നു മൊത്തം ബലം എന്നത് ∑jwijdijആയിരിക്കും wij എന്നത് ij എന്നിവകൾക്കിടയിലെ ദൂരം ആണ് അതായത് കണക്ഷന്റെ ഭാരം d ij എന്നത് ദൂരവും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സെൽ i സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ അത് പ്രബല ശക്തിയുടെ ദിശയിലേക്ക് നീങ്ങുകയും അതിന്റെ അവസാന സ്ഥാനത്ത് 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഫലമായുണ്ടാകുന്ന ഫോഴ്സ് Fi 0 ആയിരിക്കും അതിനാൽ സെൽ i സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ അത് 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഫൈനലിൽ സ്വയമേവ വന്ന് വിശ്രമിക്കും അതിനാൽ 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷന്റെ കോർഡിനേറ്റ് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം അതിലൂടെ ആ ബ്ലോക്ക് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതെന്ന് നമുക്ക് തീരുമാനിക്കാം അതിനാൽ ഈ രീതിയിൽ ഓരോന്നായി സെല്ലുകൾ മാറ്റി സ്ഥാപിച്ചു ഒരു ആവർത്തനം നടത്തുകയാണെങ്കിൽ അതിനാൽ എല്ലാ സെല്ലുകളും അവയുടെ 0 ഫോഴ്സ് ലൊക്കേഷനുകളിലേക്ക് നീങ്ങുമ്പോൾ മൊത്തം വയർ ദൈർഘ്യം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം അവയ്ക്കിടയിൽ പരമാവധി എണ്ണം വയറുകളുള്ള രണ്ട് ബ്ലോക്കുകൾക്ക് പരമാവധി ശക്തി ഉണ്ടായിരിക്കും അതിനാൽ അവ ഒരുമിച്ച് അടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ നമുക്ക് ഒരു ലളിതമായ കണക്കുകൂട്ടൽ നടത്താം അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ശക്തി ഒരു ശക്തിക്ക് അതിന്റെ x ഘടകവും y ഘടകവും രണ്ട് അളവിലുള്ള തലത്തിൽ ഉണ്ടായിരിക്കും അതിനാൽ ഞങ്ങൾ ഫോഴ്സിന്റെ x ഘടകങ്ങളെയും y ഘടകങ്ങളെയും 0 ആയി തുല്യമായി സമന്വയിപ്പിക്കുകയും കോർഡിനേറ്റിനായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ സെല്ലിനായി xi0 yi0 എന്നിവ 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഈ അവസാന സ്ഥാനത്തുള്ള സെൽ i ൽ x ദിശയിൽ wij ആയിരിക്കും xj0 മൈനസ് xi0 ഈ j എന്നത് മറ്റെല്ലാ ബ്ലോക്കുകളും i ആണ് j ന് ഈ 0 യഥാർത്ഥത്തിൽ ആവശ്യമില്ല അതിനാൽ നിങ്ങൾക്ക് എനിക്ക് 0 മാത്രമേ ആവശ്യമുള്ളൂ കാരണം i മറ്റെല്ലാ ബ്ലോക്കുകളും ഇതിനകം 0 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷനിൽ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചതിനാലാണ് ഞാൻ ഇവിടെ 0 കാണിക്കുന്നത് എന്നാൽ ഈ സമവാക്യത്തിൽ നമുക്ക് xi0 ൽ കൂടുതൽ താൽപ്പര്യമുണ്ട് അതിനാൽ x ദിശയിലുള്ള രണ്ട് ബ്ലോക്കുകൾ തമ്മിലുള്ള ദൂരം xj മൈനസ് xi ഭാരം കൊണ്ട് ഗുണിക്കും അതുപോലെ രണ്ട് ബ്ലോക്കുകൾ തമ്മിലുള്ള വൈ ദിശയിലുള്ള ദൂരം yj മൈനസ് yi0 ഭാരം കൊണ്ട് ഗുണിക്കും അതിനാൽ നിങ്ങൾ ഇവ രണ്ടും വെവ്വേറെ 0 കൾക്ക് തുല്യമാക്കുകയാണെങ്കിൽ അതായത് x ദിശയിലുടനീളം y ദിശയിലുടനീളമുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും നിങ്ങൾ അത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് xij ന്റെ മൂല്യം ലഭിക്കും പകരം ഈ xi0 ഞാൻ എഴുതുന്നു ഈ yi0 ഞാൻ yj yj0 എഴുതുന്നു അതിനാൽ അന്തിമ സ്ഥാനം ഇതുപോലുള്ള പദപ്രയോഗങ്ങളാൽ x y മൂല്യങ്ങൾ നൽകുന്നു അതിനാൽ മറ്റെല്ലാ ബ്ലോക്കുകളുടെയും കോർഡിനേറ്റുകളും അവയുടെ കണക്ഷനുകളുടെ ഭാരവും എനിക്കറിയാമെങ്കിൽ 0 ഫോഴ്സ് ടാർഗെറ്റ് ലൊക്കേഷന്റെ മൂല്യം നമുക്ക് കണക്കാക്കാം പക്ഷേ ടാർഗെറ്റ് കോർഡിനേറ്റ് സൃഷ്ടിക്കുമ്പോൾ ഓവർലാപ്പ് ഇല്ലെന്ന് വ്യക്തമായി പരിശോധിക്കണം കാരണം നിങ്ങൾ ഇതിനകം തന്നെ കൈവശമുള്ള ടാർഗെറ്റ് കോർഡിനേറ്റ് സൃഷ്ടിച്ചേക്കാം അതിനാൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ബ്ലോക്ക് ഇടേണ്ടതുണ്ട് നമുക്ക് ഒരു ചെറിയ ഉദാഹരണം നോക്കാം പ്രശ്നം ഇടതുവശത്തുള്ള ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നു വലത് ചിത്രം നിങ്ങൾ തത്കാലം അവഗണിക്കുക കാരണം ഇത് അന്തിമ പരിഹാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ ഇതിൽ എത്തിച്ചേരും ഈ ഉദാഹരണത്തിൽ ഞാൻ ഞാൻ 4 ഇന്പുട് ഔട്ട്പുട്ട് പാടുകൾ കാണിക്കുന്നു ഇൻഔട്ട് വിഡിഡി ഗ്രൌണ്ട് ഒരു ഗേറ്റ് വലത് എന്നിവ അതിനാൽ എനിക്ക് ലാളിത്യത്തിനായി ഞാൻ കരുതുന്നത് എനിക്ക് ഒരു ത്രീ ബൈ ത്രീ ഗ്രിഡ് പോലുള്ള ഘടനയുണ്ട് നാല് പാഡുകൾ ഇതിനകം നാല് കോണിലുള്ള ദീർഘചതുരങ്ങളിൽ മുൻകൂട്ടി സ്ഥാപിച്ചിട്ടുണ്ട് Vdd ഇവിടെഔട്ട് ഇവിടെ ഗ്രൌണ്ട് ഇവിടെയും ഇൻ ഇവിടെയുണ്ട് ഈ ഇൻവെർട്ടർ ഈ ഗേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മികച്ച സ്ഥലം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നം അതിനാൽ 1 2 3 4 5 ലൊക്കേഷനുകൾ ലഭ്യമാണ് അതിനാൽ ഈ 5 സ്ഥലങ്ങളിൽ ഈ ഗേറ്റ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ് അതിനാൽ ഇവിടെ ലഭ്യമായത് വയറുകളുടെ ഭാരം നൽകി എന്നതാണ് ശരി ഈ സംഖ്യ ചിത്രീകരണ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്തുകൊണ്ടാണ് Vdd ഭാരം 8 ഉം ഗ്രൌണ്ട് വെയ്റ്റ് 3 ഉം എന്ന്കരുതരുത് ഇതൊന്നും വെറും ചില സംഖ്യകളല്ല അതിനാൽ ഈ ഭാരം ഈ ഭാരം അല്ലെങ്കിൽ ഈ ലൈൻ 8 ഉം w out 10 ഉം w in 3 ഉം ഗ്രൌണ്ടും ആണ് എന്ന് നമുക്ക് പറയാം ഈ ഗേറ്റ് ശരിയാണ് നോക്കാം അതിനാൽ ഇതാണ് ഞങ്ങളുടെ ത്രീ ബൈ ത്രീ ഗ്രിഡ് 0 0 ഈ സെല്ലിനെ സൂചിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇത് 10 20 ഇത് 01 11 21 02 22 എന്നിവയാണ് അതിനാൽ നമ്മൾ ഈ സമവാക്യം പിന്തുടരുകയാണ് നമുക്ക് ലഭിച്ച സമവാക്യം അനുസരിച്ച് ആദ്യം നമുക്ക് 0 ഫോഴ്സ് x കോർഡിനേറ്റ് കണക്കാക്കാം അതിനാൽ wij മൂല്യങ്ങൾ ഇതിനകം 8 10 3 3 എന്നിവ അറിയപ്പെടുന്നു അതിനാൽ wj എന്ന സംഖ്യ xj ൽ ആയിരിക്കും നാല് j യുടെ vddഔട്ട് ഇൻ ഗ്രൌണ്ട് എന്നിവയുണ്ട് അതിനാൽ w vdd x vdd plus w out x out w in x in w ground x ground ഡിനോമിനേറ്ററിൽ വെറും ഭാരങ്ങളുടെ ആകെത്തുക അതിനാൽ നിങ്ങൾ മൂല്യങ്ങൾ വെക്കുന്നു ഭാരം 8 10 3 3 w vdd 8 ഉം x vdd ഉം ആണ് vdd ന് എന്താണ് x കോർഡിനേറ്റ് 0 ഇത് 02 ആണ് ഭാരം 10 ആണെങ്കിൽ x കോർഡിനേറ്റ് 2 10 മുതൽ 2 വരെയാണ് x കോർഡിനേറ്റിലെ x ന് വീണ്ടും 0 3 ആയി 0 ഗ്രൌണ്ട് x കോർഡിനേറ്റ് വീണ്ടും 2 20 3 ആയി 2 ആണ് അതിനാൽ നിങ്ങൾ കണക്കുകൂട്ടുകയാണെങ്കിൽ 26 ൽ നിന്ന് 24 ൽ വരുന്നത് 1 83 ആണ് അതുപോലെ നിങ്ങൾ 0 ഫോഴ്സ് കണക്കുകൂട്ടുകയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് y കോർഡിനേറ്റ് അത് സമാനമായിരിക്കും അതിനാൽ സമവാക്യം ഈ y vdd y out മുതലായവ ആയിരിക്കും അതിനാൽ ഈ y vdd 8 ലേക്ക് vdd y കോർഡിനേറ്റ് 2 0 കോമ 2 ആണ് y 2 ആണ് എന്നാൽ y കോർഡിനേറ്റ് ഗ്രൌണ്ടിൽ 0 ആണ് അത് 0 ഉം 0 ആകയാൽ ഇത് 16 ഉം 20 36 ഉം ഇത് 24 ഉം ആണ് അതിനാൽ നിങ്ങൾക്ക് 1 5 ലഭിക്കും അതിനാൽ 0 ഫോഴ്സ് ലൊക്കേഷൻ 1 083 ഉം 1 5 ഉം ആയി കണക്കാക്കുന്നു നിങ്ങൾ ഒരു റൌണ്ട് ചെയ്താൽ 1 കോമ 2 ഏറ്റവും അടുത്തുള്ള പൂർണ്ണസംഖ്യ അതിനാൽ 1 കോമ 2 ഈ സെൽ ആയിരിക്കും അതിനാൽ അന്തിമ പരിഹാരം കാണിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക പ്രശ്നത്തിന് ഈ ഗേറ്റ് ഗ്രിഡിനുള്ളിൽ ഈ സ്ഥലത്ത് സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ ഫോഴ്സ്മെന്റ് പ്ലേസ്മെന്റിനെ നയിച്ചതിന്റെ പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കിയ ഉപപ്രശ്നം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും മറ്റ് ചില j നമ്പർ ബ്ലോക്കുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ ഒരു പുതിയ ബ്ലോക്ക് i സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ മൊത്തം കോർഡിനേറ്റ് എന്തായിരിക്കണം ബാഹ്യ j ബ്ലോക്കുകളാൽ i ൽ പ്രയോഗിക്കുന്നു x ദിശയിലും y ദിശയിലും 0 ആയിരിക്കും ഇപ്പോൾ ഒരു ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനുള്ള ഉപപ്രശ്നം ഞങ്ങൾ പരിശോധിച്ചു മറ്റ് j ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കരുതുക ഇപ്പോൾ ഈ സമീപനം ക്രിയാത്മകമായ പ്ലേസ്മെന്റിനായി ഉപയോഗിക്കാം കൺസ്ട്രക്റ്റീവ് പ്ലേസ്മെന്റ് എന്നാൽ എനിക്ക് 100 ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറയട്ടെ അവയെല്ലാം ക്രിയാത്മകമായി സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവയെ ഓരോ ശ്രേണിയിലും ഓരോന്നായി സ്ഥാപിക്കുന്നു അതിനാൽ പതുക്കെ ഞാൻ പ്ലെയ്സ്മെന്റ് നിർമ്മിക്കുന്നു ക്രിയാത്മകം എന്നാൽ മുന്നോട്ട് പോകുന്തോറും വലുപ്പത്തിൽ വളരുന്ന ഒന്ന് അതിനാൽ സൃഷ്ടിപരമായ സ്ഥാനം വളരെ ലളിതമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചില പ്രാരംഭ പ്ലെയ്സ്മെന്റിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് തുടക്കത്തിൽ പ്രാരംഭ പ്ലേസ്മെന്റ് അസാധുവാണ് അവിടെ ഒന്നുമില്ല അതിനാൽ നിങ്ങൾ ഒരു സമയം ഒരു മൊഡ്യൂൾ തിരഞ്ഞെടുക്കുക അതിന്റെ 0 ഫോഴ്സ് ലൊക്കേഷൻ കണക്കുകൂട്ടുകയും അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുക തീർച്ചയായും ലഭിച്ച പരിഹാരത്തിൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്ന ചില ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സെല്ലുകൾ പ്ലെയ്സ്മെന്റിനായി എടുക്കുന്ന ക്രമം അത്ക്രമരഹിതമോ അല്ലെങ്കിൽ ചില ഹ്യൂറിസ്റ്റിക്കുകളാൽ നയിക്കപ്പെടുന്നതോ ആകാം ഉദാഹരണത്തിന് നിങ്ങൾ ഉണ്ടായിരുന്ന ഓരോ ഘട്ടത്തിലും ശേഷിക്കുന്ന എല്ലാ സെല്ലുകളും നിങ്ങൾ പരിഗണിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഇതിനകം സ്ഥാപിച്ച 100 ൽ 40 സെല്ലുകൾ അവശേഷിക്കുന്നു അതിനാൽ ബാക്കി 60 സെല്ലുകൾക്കായി ഞാൻ കണക്കുകൂട്ടുന്നു അതിനായി Fi യുടെ മൂല്യം പരമാവധി വരുന്നു അതിനാൽ ഞാൻ താൽക്കാലിക പ്ലെയ്സ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനാൽ പരമാവധി വരുന്ന താൽക്കാലിക പ്ലെയ്സ്മെന്റിനായി അതിനാൽ നിങ്ങൾ Fi പരമാവധി ഉള്ള സെൽ തിരഞ്ഞെടുത്ത് അതിനായി ഒരു പുതിയ ലൊക്കേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുക കണക്കുകൂട്ടുക തീർച്ചയായും ഇവിടെ ഞാൻ അനുമാനിക്കുന്നത് ഒരുതരം ക്രമരഹിതമായ പ്ലെയ്സ്മെന്റിലാണ് അവ ഓരോന്നായി സ്ഥാപിക്കുന്നില്ല അതിനാൽ ഞാൻ ക്രമരഹിതമായി സ്ഥാപിക്കുന്നു തറയിലെ 100 സെല്ലുകൾ എന്നാൽ ഓരോന്നായി 0 ഫോഴ്സ് ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒപ്റ്റിമൈസേഷനായി ഞാൻ അവയെ പരിഗണിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ബ്ലോക്കിന്റെയോ സെല്ലിന്റെയോ 0 ഫോഴ്സ് ലൊക്കേഷൻ കണക്കാക്കുമ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് അതിനാൽ 0 ഫോഴ്സ് ലൊക്കേഷൻ ഇതിനകം മറ്റൊരു സെൽ q കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പരിഗണനയിലുള്ള സെൽ p പറയട്ടെ ഇതിന് നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾ p നീക്കുന്നു നിങ്ങൾക്ക് p q ൽ ഇടാൻ കഴിയില്ല കാരണം p ഇതിനകം തന്നെ കൈവശപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ p യിലേക്ക് വലത് ഇടത് മുകളിൽ താഴെ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നു നമ്പർ രണ്ടാണ് നിങ്ങൾ p q എന്നിവ കൈമാറുകയോ സ്വാപ്പ് ചെയ്യുകയോ ചെയ്താൽ എന്താണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു അതിനാൽ നിങ്ങൾ p ഉം q ഉം കൈമാറ്റം ചെയ്യുകയും ചെലവ് കുറയുന്നത് കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വാപ്പ് സ്വീകരിക്കാൻ കഴിയും റിപ്പിൾ മൂവ് എന്നാൽ ഞങ്ങൾ ഒരു തരം അലയടിക്കുകയോ ചെയിൻ പ്രതികരണം ചെയ്യുകയോ ചെയ്യുന്നു നിങ്ങൾ സെൽ പി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് q ആക്കിയിരിക്കുന്നതും q എന്നതിന്റെ പുതിയ ലൊക്കേഷനുമായി നിങ്ങൾ പുതിയ 0 ഫോഴ്സ് ലൊക്കേഷൻ കണക്കുകൂട്ടുന്നു q നിങ്ങൾ ആ സ്ഥാനത്ത് q വയ്ക്കുന്നു ആ സ്ഥാനം മറ്റൊരു സെല്ലും കൈവശപ്പെടുത്തിയിരിക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ 0 ലൊക്കേഷൻ r ന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്നു ഈ വിധത്തിൽ അവസാനം എല്ലാ സെല്ലുകളും സ്ഥാപിക്കുന്നതുവരെ നിങ്ങൾ ആവർത്തിക്കുന്നു ഒടുവിൽ ഒരു ചെയിൻ മൂവ് ആണ് നിങ്ങൾ ഓരോ തവണയും 0 ഫോഴ്സ് ലൊക്കേഷൻ ഒരു റിപ്പിൾ മൂവ് പോലെ വീണ്ടും കണക്കു കൂട്ടുന്നില്ല എന്നാൽ നിങ്ങൾ സെൽ p കംപ്യൂട്ട് ചെയ്ത ലൊക്കേഷനിലും സെൽ q ആ ലൊക്കേഷൻ നേരത്തെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത് നീക്കുന്നു ഒരു തൊട്ടടുത്ത സ്ഥലം തൊട്ടടുത്തുള്ള സ്ഥലം മറ്റേതെങ്കിലും സെൽ ആർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അടുത്തുള്ള സ്ഥലം കണ്ടെത്തുന്നതുവരെ അടിസ്ഥാനപരമായി എല്ലാ സെല്ലുകളും മാറ്റുന്നതുപോലെ നിങ്ങൾ അടുത്തുള്ള സ്ഥലത്തേക്ക് നീങ്ങുന്നു അതിനാൽ ഫോഴ്സ് ഡയറക്റ്റഡ് ഷെഡ്യൂളിംഗും ക്രിയാത്മക പ്ലേസ്മെന്റ് കേസും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ സ്പ്രിംഗുകളിൽ നിന്നുള്ള സാമ്യങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലെ സ്പ്രിംഗുകൾ ഉപയോഗിച്ച് ശക്തികൾ പ്രയോഗിക്കുന്ന വിധത്തിൽ ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള മികച്ച സ്ഥലവും നമുക്ക് കണ്ടെത്താനാകും വ്യത്യസ്ത ബ്ലോക്കുകളുടെ ലൊക്കേഷൻ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നതിന് ഫോഴ്സ് ഡയറക്റ്റീവ് പ്ലെയ്സ്മെന്റ് അടിസ്ഥാനമാക്കി ഇത്തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക് ഉപയോഗിക്കുന്ന നിരവധി പ്ലെയ്സ്മെന്റ് ടൂളുകൾ ഇപ്പോൾ ഉണ്ട് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണ നമ്പർ 13 ന്റെ അവസാനത്തിലേക്ക് വരുന്നു